ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് ലീനിയർ അൽജിബ്ര സ്റ്റാറ്റിസ്റ്റിക്കുകളുടെയും ഒപ്റ്റിമൈസേഷന്റെയും അടിസ്ഥാനത്തിൽ ഡാറ്റാ സയൻസിനെ മനസ്സിലാക്കാൻ ആവശ്യമായ അടിസ്ഥാനകാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പരിശോധിച്ചു നമ്മൾ ഡാറ്റാ സയൻസ് അവതരിപ്പിക്കുകയും ഡാറ്റാ സയൻസിൽ ഉപയോഗിക്കുന്ന വിവിധ ടെക്നിക്കുകൾ വിവരിക്കുകയും ചെയ്യുന്ന ലെക്ച്ചർ സീരീസ് ആരംഭിക്കാൻ പോകുന്നു അവസാനം ഡാറ്റാ സയൻസിന്റെ ഉപയോഗത്തിന്റെ ഒരു പ്രായോഗിക വ്യാവസായിക ഉദാഹരണത്തോടെ അവസാനിപ്പിക്കുന്നു നമ്മൾ ടെക്നിക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു ഡാറ്റാ സയൻസ് പ്രോബ്ളത്തിൽ ടെക്നിക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിത്രീകരിക്കാൻ നമ്മൾ ചെറിയ ഉദാഹരണങ്ങളും ഉപയോഗിക്കും ഈ കോഴ്സിന്റെ അവസാനം പങ്കെടുക്കുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കേസ് സ്റ്റഡിയും ഉണ്ടായിരിക്കും ഡാറ്റാ സയൻസിന്റെ ആമുഖത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ലെക്ച്ചർ ആണിത് നമ്മൾ ടെക്നിക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡാറ്റാ സയൻസിനെ നോക്കുന്നതിനുള്ള രസകരമായ ചില വഴികൾ പരിചയപ്പെടുത്താനും വിശാലമായ സന്ദർഭത്തിൽ ഈ ടെക്നിക്കുകൾ എന്താണ് ചെയ്യുന്നതെന്നും ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങളെ കുറിച്ച് ഒരാൾ എങ്ങനെ ചിന്തിക്കണമെന്നും മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വ്യത്യസ്തമായ രീതികളായി ഒരാൾക്ക് ഈ ടെക്നിക്കുകൾ പഠിപ്പിക്കാം എന്നിരുന്നാലും പ്രോബ്ലം ഫോർമുലേഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന യഥാർത്ഥ പ്രോബ്ളങ്ങൾക്ക് ഈ ടെക്നിക്ക് ടെക്നിക്കുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുക എന്നതാണ് പ്രധാന കാര്യം ഈ കോഴ്സിൽ നമ്മൾ ചെയ്യുന്നത് പങ്കെടുക്കുന്നവരെ ഒരു ഡാറ്റാ സയൻസ് പ്രോബ്ലം സോൾവിങ് ചട്ടക്കൂടിലേക്ക് പരിചയപ്പെടുത്തുക അതിനെക്കുറിച്ചുള്ള വളരെ ചെറിയ ലെക്ച്ചർ പൊതുവായ ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങളെക്കുറിച്ച് ഒരാൾ എങ്ങനെ ചിന്തിക്കണം നിങ്ങൾക്കറിയാവുന്ന വെൽ ഡിഫൈൻഡ് അല്ലാത്ത ഒരു പ്രോബ്ലം ഈ കോഴ്സിൽ നിങ്ങൾ പഠിക്കുന്ന ടെക്നിക്കുകൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാവുന്ന ഒന്നായി എങ്ങനെ പരിവർത്തനം ചെയ്യുന്നു എന്നതിന്റെയെല്ലാം ഒരു വീക്ഷണം നിങ്ങൾക്ക് നൽകുന്നു ഡാറ്റാ സയൻസിന് വേണ്ടിയുള്ള ഏതെങ്കിലും പാഠ്യപദ്ധതിയോ ഡാറ്റാ സയൻസിനെക്കുറിച്ച് വിവരിക്കുന്ന വെബ്സൈറ്റുകളോ മറ്റു പുസ്തകങ്ങളോ നോക്കുന്ന ആളുകൾ സാധാരണ കാണുന്ന ടെക്നിക്കുകളുടെ ഈ പട്ടികയിൽ നിന്ന് ഞാൻ ആരംഭിക്കാം ഈ കോഴ്സിൽ നിങ്ങൾ പച്ചയിൽ കാണുന്ന ടെക്നിക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് കളർ കോഡിംഗ് നടത്തി ഈ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കാത്ത മറ്റ് ടെക്നിക്കുകൾ അവിടെയുണ്ട് എന്നാൽ അത് കോഴ്സിന്റെ കൂടുതൽ വിപുലമായ ഭാഗമായിരിക്കും റിഗ്രഷൻ അനാലിസിസ് K നിയറെസ്റ് നെയ്ബർ കെ മീൻസ് ക്ലസ്റ്ററിങ് ലോജിസ്റ്റിക് റിഗ്രെഷൻ പ്രിൻസിപ്പ്ൾ കംപോണന്റ് അനാലിസിസ് എന്നിങ്ങനെയുള്ള ടെക്നിക്കുകൾ ഉണ്ട് ഇവയെല്ലാം ഈ കോഴ്സിൽ നിങ്ങൾ കാണും തുടർന്ന് പ്രെഡിക്റ്റീവ് മോഡലിംഗിനെക്കുറിച്ച് സംസാരിക്കും ഇതിനു കീഴിൽ ലസ്സോ ഇലാസ്റ്റിക് നെറ്റ് പോലുള്ളവ നിങ്ങൾക്ക് പഠിക്കാം ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ് സപ്പോർട്ട് വെക്റ്റർ മെഷീനുകൾ ഡിസിഷൻ ട്രീകളും റാൻഡം ഫോറസ്റ്റുകളും ക്വാഡ്രാറ്റിക് ഡിസ്ക്രിമിനന്റ് അനാലിസിസ് നേവ് ബയേസ് ക്ലാസിഫയർ ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിംഗ് തുടങ്ങിയ ടെക്നിക്ക്കളും ഡീപ് നെറ്റ്വർക്കുകളും മറ്റും ഉണ്ട് ഡാറ്റാ സയൻസിനെക്കുറിച്ചുള്ള പൊതുവായ ഒരു ആശയം ലഭിക്കുന്നതിന് ഈ ടെക്നിക്ക്കളുടെ എല്ലാ ശേഖരണങ്ങളും ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങൾ പരിഹരിക്കുമോ ഏതൊക്കെ തരത്തിലുള്ള പ്രോബ്ളങ്ങളാണ് യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടുന്നതെന്ന് അറിയാൻ ഒരാൾക്ക് താൽപ്പര്യമുണ്ടാകാം പരിഹരിക്കപ്പെടുന്ന പ്രോബ്ളങ്ങൾ ഏതെല്ലാമെന്ന് ഒരിക്കൽ അറിഞ്ഞാൽ അടുത്ത ലോജിക്കൽ ചോദ്യം ഇതായിരിക്കും നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രോബ്ളങ്ങൾക്ക് നിങ്ങൾക്ക് വളരെയധികം ടെക്നിക്കുകൾ ആവശ്യമുണ്ടോ അതിനാൽ ഒരാൾക്ക് ഉത്തരം നൽകാൻ താൽപ്പര്യമുള്ള സാധാരണ ചോദ്യങ്ങളായിരിക്കും ഇത് പരിഹരിക്കപ്പെടുന്ന പ്രോബ്ളങ്ങളുടെ തരത്തെക്കുറിച്ചും ഇത്തരം പ്രോബ്ളങ്ങൾ പരിഹരിക്കുന്നതിന് എന്തിനാണ് ഇത്രയധികം ടെക്നിക്കുകൾ ഉള്ളതെന്നതിനെക്കുറിച്ചും എന്റെ വീക്ഷണം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നു ഡാറ്റാ സയൻസ് ഫോർ എൻജിനീയേഴ്സ്നെക്കുറിച്ചുള്ള ആദ്യ കോഴ്സ് ആയതിനാൽ എഞ്ചിനീയർമാർക്ക് ഏറ്റവും താൽപ്പര്യമുള്ള പ്രോബ്ളങ്ങളുടെ പ്രധാന വിഭാഗങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ പോകുന്നു മറ്റ് വിഭാഗത്തിലുള്ള പ്രോബ്ളങ്ങൾ നിലവിലില്ല എന്നോ അവ രസകരമല്ലെന്നോ ഇതിനർത്ഥമില്ല ഈ കോഴ്സിന്റെ ലെക്ച്ചർ മെറ്റീരിയലുകളിലൂടെ കടന്നുപോകുമ്പോൾ നമ്മൾ ഈ കാഴ്ചപ്പാട് പശ്ചാത്തലത്തിൽ സൂക്ഷിക്കും ഇത് കൂടാതെ ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്കുകൾ ഉപയോഗപ്രദമാണെന്ന് സ്വയം ചിന്തിക്കാം ഡാറ്റാ സയൻസ് ടെക്നിക്കുകളുടെ രൂപീകരണത്തിന്റെ കാര്യത്തിലും മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളുടെ സ്വഭാവ സവിശേഷതകളിലും സ്റ്റാറ്റിസ്റ്റിക്കുകൾ സങ്കീർണ്ണമായി ഉൾച്ചേർത്തിരിക്കുന്നു ഡാറ്റാ സയൻസിൽ പ്രധാനമായും നമ്മൾ പരിഹരിക്കുന്ന 2 ക്ലാസ് പ്രോബ്ളങ്ങളുണ്ടെന്ന് ഞാൻ പറയും ഞാൻ ഇവയെ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളങ്ങൾ എന്നും ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ളങ്ങൾ എന്നും വിളിക്കാൻ പോകുന്നു ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവായി ലേബൽ ചെയ്തിരിക്കുന്ന ഡാറ്റയുള്ള പ്രോബ്ളങ്ങളാണ് ഇവ ലേബൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ വിശദീകരിക്കും നിങ്ങൾക്ക് ഒരു പുതിയ ഡാറ്റ ലഭിക്കുമ്പോഴെല്ലാം ആ ഡാറ്റയ്ക്ക് ഒരു ലേബൽ നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത്തരത്തിലുള്ള പ്രോബ്ളത്തിന്റെ സാധാരണ ഉദാഹരണത്തെ ബൈനറി ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളം എന്ന് വിളിക്കുന്നു ഇത് പല ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ 2 ആപ്ലിക്കേഷനുകൾ ചൂണ്ടിക്കാണിക്കും ഇത്തരത്തിലുള്ള പ്രോബ്ളങ്ങളിൽ നിങ്ങളുടെ പക്കലുള്ള ഡാറ്റ നമ്മൾ ഡാറ്റ x എന്ന് വിളിക്കും ഈ ഡാറ്റയ്ക്ക് നിരവധി ആട്രിബ്യൂട്ടുകൾ ഉണ്ടായിരിക്കാം x1 x2 xn വരെ നമുക്ക് പറയാം ഇത് ലീനിയർ അൽജിബ്രയിലും മറ്റും ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ളങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു കൂട്ടം ഡാറ്റയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു ഒരു ലേബൽ നമുക്ക് c1 എന്ന് പറയാം c എന്ന പദം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ വിശദീകരിക്കാം c എന്നത് ഈ ഡാറ്റ ഉൾപ്പെടുന്ന ക്ലാസിനെ സൂചിപ്പിക്കുന്നു തുടർന്ന് അതേ ആട്രിബ്യൂട്ടുകളുള്ള ഡാറ്റയുടെ മറ്റൊരു ബ്ലോക്ക് c2 എന്ന് ലേബൽ ചെയ്തേക്കാം ഡാറ്റാ സയൻസ് പ്രോബ്ലം ഇനിപ്പറയുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഡാറ്റ പോയിന്റ് നൽകിയാൽ നമുക്ക് x1 x2 xn വരെ പറയാം അൽഗോരിതത്തിന് വർഗ്ഗീകരിക്കാൻ കഴിയണം ഈ പോയിന്റ് ഒന്നുകിൽ ക്ലാസ് 1 അല്ലെങ്കിൽ അത് ക്ലാസ് 2 ൽ നിന്ന് വന്നതാകാം അതിനാൽ ഈ ഡാറ്റ ക്ലാസ് 1 ൽ നിന്നോ ക്ലാസ് 2 ൽ നിന്നോ വരാനുള്ള സാധ്യതയെ അടിസ്ഥാനമാക്കി ഈ പുതിയ ഡാറ്റയ്ക്ക് ഒരു ലേബൽ നൽകുന്നത് ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളമാണ് ക്ലാസ് 1 ൽ നിന്ന് 0 9 ആയും ക്ലാസ് 2 ൽ നിന്ന് 0 1 ആയും നിങ്ങൾ ഇത് വരാനുള്ള സാധ്യത നിയോഗിക്കുകയാണെങ്കിൽ ഈ ഡാറ്റ പോയിന്റ് ക്ലാസ് 1 ൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരാൾ വിലയിരുത്തും ഒരു യഥാർത്ഥ പ്രോബ്ളത്തിൽ ഇത് എങ്ങനെ ഉപയോഗപ്രദമാണെന്ന് നോക്കാം ഞാൻ നിങ്ങൾക്ക് 2 ഉദാഹരണങ്ങൾ തരാം ഒരു ഉദാഹരണം ഫ്രോഡ് ഡിറ്റക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ആളുകൾ എപ്പോഴും സംസാരിക്കുന്ന ഒന്നാണ് അതിനാൽ ഉദാഹരണത്തിന് ഫ്രോഡ് ഡിറ്റക്ഷൻന്റെ ഒരു പ്രത്യേക കേസ് എടുക്കാം നമ്മൾ പോയി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴെല്ലാം നമ്മൾ എന്തെങ്കിലും വാങ്ങുകയും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പണം ഈടാക്കുകയും ചെയ്യും നിങ്ങൾ രേഖപ്പെടുത്തുന്ന എല്ലാ ഇടപാടുകൾക്കും ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇടപാട് നടത്തിയ ദിവസത്തിന്റെ സമയം ഇടപാടിലൂടെ വാങ്ങുന്ന ഉൽപ്പന്നത്തിന്റെ തരം ഇടപാട് നടത്തുന്ന സ്ഥലവും മറ്റും അതിനാൽ അത്തരം നിരവധി ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം ഓരോ ഇടപാടിന്റെയും സവിശേഷതയാണ് ഇവയെന്ന് നമുക്ക് പറയാം ധാരാളം ആളുകൾ ഉണ്ടെന്നും അവർ ഇടപാടുകൾ നടത്തുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഇതുപോലെ ലിസ്റ്റ് ചെയ്ത ഇടപാടുകൾ ഉണ്ടെന്നും നമുക്ക് അനുമാനിക്കാം ഇവ യഥാർത്ഥത്തിൽ വഞ്ചനാപരമായ ഇടപാടുകളായിരുന്നു ഇവ നിയമപരമല്ലാത്തതോ ക്രെഡിറ്റ് കാർഡും ഉടമസ്ഥതയിലുള്ള വ്യക്തി നടത്താത്തതോ ആയ ഇടപാടുകളാണ്ന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഇത് ശരിയല്ലെന്ന് കരുതുന്ന ഓരോ ഇടപാടുകളും പര്യവേക്ഷണം ചെയ്യുന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ലേബൽ ചെയ്യുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ ആ ഇടപാട് നിയമപരമല്ലെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ നിങ്ങൾ അത് നിയമവിരുദ്ധമായ ഇടപാടായ ബാസ്ക്കറ്റിൽ ഇടുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു ഡാറ്റാ സയൻസ് അൽഗോരിതം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഇടപാട് ശരിയായതോ വഞ്ചനാപരമായതോ ആകാനുള്ള സാധ്യത നൽകാൻ കഴിയുന്ന ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ അൽഗോരിതം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എളുപ്പത്തിൽ കണക്കാക്കാവുന്ന ആട്രിബ്യൂട്ടുകൾ അല്ലെങ്കിൽ എളുപ്പത്തിൽ നിരീക്ഷിക്കാവുന്നതോ അളക്കാവുന്നതോ ആയ ആട്രിബ്യൂട്ടുകളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് ഒരു പുതിയ ഇടപാട് നടക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് അത് ഈ ക്ലാസിഫയർ വഴി പ്രവർത്തിപ്പിക്കാം തുടർന്ന് ഈ ഇടപാട് വഞ്ചനാപരമായിരിക്കാനുള്ള സാധ്യത കണ്ടെത്താം ഇടപാട് വഞ്ചനാപരമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള സന്ദർഭങ്ങളിൽ കമ്പനിക്ക് ആ വ്യക്തിയെ വിളിച്ച് പറയാനാകും ഹേയ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇന്നാലിന്ന സ്ഥലത്തു ഇന്നാലിന്ന സമയത്തു ഇന്നാലിന്ന സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം നിങ്ങൾ ഒരു അവധിക്കാലത്ത് വിദൂര സ്ഥലത്തേക്ക് പോകുകയും ഈ ഇടപാട് നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവധിക്കാലത്ത് ഈ സ്ഥലത്ത് വന്നിരുന്നു ഈ ട്രാൻസാക്ഷൻ ശരിയാണെന്ന് നിങ്ങൾക്ക് അവരോട് പറയാം അങ്ങനെയല്ലെങ്കിൽ നിങ്ങൾ അത് വഞ്ചനാപരമായ ഇടപാടാണെന്ന് കണ്ടെത്തുകയും പേയ്മെന്റ് നിർത്തുകയും ചെയ്യുന്നു അതിനാൽ ബൈനറി ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളം യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്രദമാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണിത് ഇപ്പോൾ നമ്മൾ ഈ ഡാറ്റയെ കുറിച്ചും ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ളത്തെ കുറിച്ചും സംസാരിച്ചപ്പോൾ നമ്മൾ 2 ക്ലാസുകൾ x1 x2 എന്നിവയെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ വാസ്തവത്തിൽ ഒന്നിലധികം ക്ലാസുകൾ ഉള്ളിടത്ത് പ്രോബ്ളങ്ങൾ ഉണ്ടാകാം ഫാൾട്ട് ഡയഗ്നോസിസ് അല്ലെങ്കിൽ പ്രെഡിക്ഷൻ ഓഫ് ഫൈലിയേഴ്സ് ഒരു മികച്ച എഞ്ചിനീയറിംഗ് ഉദാഹരണം ആയിരിക്കും അവിടെ നിങ്ങൾക്ക് ഒരു ഉപകരണം ഉണ്ടായിരിക്കും അത് ഒരു പമ്പ് കംപ്രസർ ഡിസ്റ്റിലെഷൻ കോളം പോലുള്ളവ ആയിരിക്കാം എന്തുമാകട്ടെ തുടർന്ന് അത് എത്ര പവർ വലിച്ചെടുക്കുന്നു എത്ര പെർഫോമൻസ് നൽകുന്നു വൈബ്രേഷൻ ഉണ്ടോ ശബ്ദമുണ്ടോ ഊഷ്മാവ് എത്രയാണ് എന്നിങ്ങനെ നിരവധി ആട്രിബ്യൂട്ടുകളാൽ ആ ഉപകരണത്തിന്റെ പ്രവർത്തനം സവിശേഷമാണ് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡാറ്റ x ഉണ്ടായിരിക്കാം അത് ഒരു പമ്പിന്റെ സ്വഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കാം പമ്പിന്റെ പ്രവർത്തനം നമുക്ക് x1 മുതൽ xn വരെയുള്ള നിരവധി ആട്രിബ്യൂട്ടുകൾ പറയാം വർഷങ്ങളോളം പമ്പുകൾ പ്രവർത്തിപ്പിക്കുന്ന പാരമ്പര്യ ഡാറ്റയോ ചരിത്രപരമായ ഡാറ്റയോ ഉണ്ടെങ്കിൽ ഈ വേരിയബിളുകൾ ഈ ബ്ലോക്കിൽ മൂല്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പമ്പുമായുള്ള എല്ലാം ഇവിടെ ശരിയാണ് അതിനാൽ ഞാൻ നോർമലിനായി n എഴുതുന്നു തുടർന്ന് നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഡാറ്റ ഉണ്ടായിരിക്കാം പമ്പിൽ ഒരു പ്രത്യേക തരം തകരാർ ഉണ്ടാകുമ്പോഴെല്ലാം ആ ഡാറ്റ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡാറ്റയായിരിക്കാം ഞാൻ ഈ തകരാർ f എന്ന് വിളിക്കാം അപ്പോൾ f2 എന്ന തകരാർ ഉള്ളപ്പോൾ കാണാമായിരുന്ന ഡാറ്റയുടെ മറ്റൊരു ബ്ലോക്ക് നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നമ്മൾ 2 തകരാർകൾ f1 f2 എന്നിവയിൽ ഉറച്ചുനിൽക്കും സാധ്യമായ 2 പരാജയ മോഡുകൾ ഇവയാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ നിങ്ങൾ പമ്പ് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങുന്നു തുടർന്ന് ചില പോയിന്റുകളിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ ലഭിക്കും തുടർന്ന് നിങ്ങൾ ഇനിപ്പറയുന്ന ചോദ്യം ചോദിക്കുന്നു ഈ ഡാറ്റയെ അടിസ്ഥാനമാക്കി പമ്പ് സാധാരണ നിലയിലാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഫൈലിയർ മോഡ് 1 ആയിരിക്കാൻ സാധ്യതയുണ്ടോ അതോ പമ്പിന്റെ നിലവിലെ അവസ്ഥ ഫൈലിയർ മോഡ് 2 ആണോ എന്നിങ്ങനെ പ്രോബ്ളത്തിന്റെ നിലവിലെ സാഹചര്യം പറയാൻ എനിക്ക് കഴിയും ഈ സാഹചര്യത്തിൽ n f1 f2 എന്നീ 3 ക്ലാസുകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു ഇതിനെയാണ് മൾട്ടി ക്ലാസ് പ്രോബ്ളം എന്ന് വിളിക്കുന്നത് വീണ്ടും ഒരു പുതിയ ഡാറ്റ വരുമ്പോൾ നമ്മൾ ഇത് നോർമൽ ആണോ f1 അല്ലെങ്കിൽ f2 ആണോ എന്ന് ലേബൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് നോർമൽ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് ഇത് f1 ആണെങ്കിൽ അത് വളരെ ഗുരുതരമാണെങ്കിൽ നിങ്ങൾ പമ്പ് നിർത്തുക തുടർന്ന് അത് സ്റ്റോപ്പ് ചെയ്യുക ഇത് വളരെ ഗുരുതരമല്ലെങ്കിൽ ഈ പമ്പ് കുറച്ച് സമയത്തിനുള്ളിൽ അറ്റകുറ്റപ്പണികൾക്കായി വരുമെന്നും പ്ലാന്റിന്റെ അടുത്ത ഷട്ട്ഡൌൺ സമയത്ത് ഈ പമ്പ് പരിപാലിക്കേണ്ടതുണ്ടെന്നും മെയിന്റനൻസ് വിഭാഗത്തെ അറിയിക്കുക അതിനാൽ എഞ്ചിനീയറിംഗ് സന്ദർഭത്തിൽ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളങ്ങൾ വളരെ പ്രധാനമാണ് ലെക്ച്ചർ സീരീസിലൂടെ കടന്നുപോകുമ്പോൾ ബൈനറി ക്ലാസ്സിഫിക്കേഷൻന്റെയും മൾട്ടി ക്ലാസ് ക്ലാസ്സിഫിക്കേഷൻന്റെയും ഉദാഹരണങ്ങൾ നമ്മൾ നോക്കും ചുരുക്കത്തിൽ ഡാറ്റാ സയൻസിൽ നമ്മൾക്ക് താൽപ്പര്യമുള്ള ഒരു തരം പ്രോബ്ലം ക്ലാസ്സിഫിക്കേഷൻ ആണ് കൂടാതെ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന വ്യത്യസ്ത തരത്തിലുള്ള വെല്ലുവിളികൾ ഇവിടെയുള്ള ഈ 2 ചിത്രങ്ങൾ കാണിക്കുന്നു വർഗ്ഗീകരണത്തിനായി ഒരു ലീനിയർ സമവാക്യമാണ് ഡിസിഷൻ ഫങ്ക്ഷൻ ആയി വരുന്നതെങ്കിൽ അത്തരം വർഗ്ഗീകരണങ്ങളെ ലീനിയർ ക്ലാസിഫിക്കേഷൻ പ്രോബ്ളങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രോബ്ളങ്ങളെ നമ്മൾ ലീനിയർ ക്ലാസിഫയബിൾ അല്ലെങ്കിൽ ലീനിയർലി ക്ലാസിഫയബിൾ എന്ന് വിളിക്കുന്നു ഇവിടെ നമ്മൾ 2 ഡയമെൻഷനുകളിൽ കാണിക്കുന്നു അതിനാൽ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ളമാണ് ഒരു ക്ലാസ് 1 ആയിരിക്കാം ഇവയെല്ലാം ക്ലാസ് 2 ആയിരിക്കാം ഈ ഡാറ്റാ പോയിന്റുകൾ തരംതിരിക്കുന്നതിന് ഒരു രേഖയോ ഒരു പ്ലെയിനോ ഹൈപ്പർ പ്ലെയിനോ ഉപയോഗിക്കാം കൂടുതൽ സങ്കീർണ്ണമായ പ്രോബ്ളങ്ങൾ നമുക്ക് തരംതിരിക്കാൻ ഹൈപ്പർ പ്ലെയിൻ അല്ലെങ്കിൽ ഒരു ലൈൻ മതിയാകില്ല ഒരു നോൺ ലീനിയർ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളത്തിന്റെ ഒരു ഉദാഹരണം ഇതാ ഈ ഡാറ്റയും ഈ ഡാറ്റ ക്ലാസ് 1 ലും ഈ ഡാറ്റ ക്ലാസ് 2 ലും ആണെന്ന് നമുക്ക് അനുമാനിക്കാം നിങ്ങൾ ഈ 2 ഡി ചിത്രത്തിൽ ക്ലാസ്സുകളെ തരം തിരിക്കാൻ ഒരു ലൈൻ വരയ്ക്കാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യത്തിൽ ഏതാണ്ട് അസാധ്യമാണ് എന്നിരുന്നാലും നിങ്ങൾ ക്ലാസ്സിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിസിഷൻ ബൌണ്ടറി ഫങ്ക്ഷൻ ഈ രൂപത്തിലുള്ളതാണെങ്കിൽ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കാണുന്നു ഇത് നോൺ ലീനിയർ ഇത് ലീനിയർ ആണ് നോൺ ലീനിയർ ഡിസിഷൻ ബൌണ്ടറികൾ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രോബ്ളങ്ങൾക്കായി ക്ലാസ്സിഫൈ ചെയ്യുന്നതിന് ഹാഫ് സ്പെയ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ച ആശയങ്ങൾ എളുപ്പത്തിൽ വിപുലീകരിക്കാൻ കഴിയും അതിനാൽ പോയിന്റുകൾ ഈ ഭാഗത്തേക്കാണെങ്കിൽ അത് ഒരു ക്ലാസാണെന്നും പോയിന്റുകൾ മറുവശത്താണെങ്കിൽ അത് മറ്റൊരു ക്ലാസാണെന്നും നിങ്ങൾ പറയും ലീനിയർ കേസിന് തുല്യമായ നോൺ ലീനിയർ ഡിസിഷൻ ബൌണ്ടറികൾക്കുള്ള തത്തുല്യമായ ആശയങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ഒരാൾ ഇത് ചെയ്യേണ്ടത് നിങ്ങൾ ലീനിയറിൽ നിന്ന് നോൺ ലീനിയറിലേക്ക് നീങ്ങുന്ന നിമിഷം മറ്റ് നിരവധി ചോദ്യങ്ങൾ ഉയർന്നുവരുന്നു ഈ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള നോൺ ലീനിയർ ഫംഗ്ഷൻ ഉപയോഗിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലീനിയർ ക്ലാസിഫയറുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ലീനിയർ ഫങ്ഷണൽ ഫോം നിശ്ചയിച്ചിരിക്കുന്നു അത് വളരെ ലളിതമാണ് നിങ്ങൾക്ക് തീർച്ചയായും പാരാമീറ്ററുകൾ കണക്കാക്കേണ്ടത് ഒരു ഫംഗ്ഷണൽ ഫോം മാത്രമാണ് എന്നാൽ നിങ്ങൾ ഏത് ഫംഗ്ഷണൽ ഫോമാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്നിരുന്നാലും ഇതൊരു നോൺ ലീനിയർ പ്രോബ്ളമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രത്യേക തരം ഡിസിഷൻ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ ഈ ഡിസിഷൻ ഫങ്ക്ഷനുകൾ എങ്ങനെ തിരഞ്ഞെടുക്കും നിങ്ങൾ നോൺ ലീനിയർ ഡൊമെയ്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഫംഗ്ഷണൽ ഫോമുകളുടെ അനന്തമായ സംഖ്യകളുണ്ട് അവയിൽ നിന്ന് നിങ്ങൾക്കായുള്ള ഒന്ന് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നത് രസകരവും പ്രധാനപ്പെട്ടതുമായ ഒരു ചോദ്യമാണ് അതിനാൽ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ഡാറ്റാ സയൻസിൽ ഒരാൾ പരിഹരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള പ്രോബ്ളത്തിലേക്ക് പോകാം ഇതിനെയാണ് ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ലം എന്ന് ഞാൻ വിളിക്കുന്നത് വീണ്ടും ഞാൻ ഇവിടെ 2 ഡൈമൻഷണൽ സ്പെയ്സിൽ ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ളങ്ങൾ കാണിക്കുന്നു എനിക്ക് ഒരു ഔട്ട് പുട്ടും ഇൻപുട്ടും ഉണ്ടായിരിക്കാം ഒരു പൊതു സാഹചര്യത്തിൽ നമുക്ക് നിരവധി ഇൻപുട്ടുകളും നിരവധി ഔട്ട്പുട്ടുകളും ഉണ്ടാകും ഇതിനെയാണ് ഇവിടെ സിംഗിൾ ഇൻപുട്ടിന്റെയും സിംഗിൾ ഔട്ട്പുട്ടിന്റെയും കേസ് എന്ന് വിളിക്കുന്നത് എന്നിരുന്നാലും നിങ്ങൾക്ക് നിരവധി ആട്രിബ്യൂട്ടുകളും ഔട്ട്പുട്ട് നിരവധി ആട്രിബ്യൂട്ടുകളുടെ പ്രവർത്തനവുമാണ് ഇതൊരു ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ലം കൂടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരവധി ആട്രിബ്യൂട്ടുകളുടെ പ്രവർത്തനമായ നിരവധി ഔട്ട്പുട്ടുകൾ ഉണ്ടായിരിക്കാം അതിനാൽ ഇതും സാധ്യമാണ് അതിനാൽ ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ ഈ ഫംഗ്ഷനുകൾ അവസാനിപ്പിക്കുന്നതിനുള്ള ചുമതലയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോഴെല്ലാം ഈ ഫംഗ്ഷൻ സാധാരണയായി പാരാമീറ്റർ ഉപയോഗിച്ച് പാരാമീറ്റർ ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഔട്ട്പുട്ട് പറയാം തുടർന്ന് ഇത് f1 x1 x2 xn എന്ന് പറയുക ഇവയാണ് ആട്രിബ്യൂട്ട് മൂല്യങ്ങൾ കൂടാതെ സാധാരണയായി ആ ഫംഗ്ഷനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കൂട്ടം പാരാമീറ്ററുകളും ഉണ്ടാകും അത് p1 p2 pr ആകാം എന്ന് നമുക്ക് പറയാം അതിനാൽ ഞാൻ ഒരു ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രോബ്ളം ഇനിപ്പറയുന്നതാണ് ഈ ഔട്ട്പുട്ടുകളുടെ നിരവധി സാമ്പിളുകളും ഈ ഔട്ട്പുട്ടുകൾക്ക് കാരണമായ അനുബന്ധ ആട്രിബ്യൂട്ടുകളും നൽകിയിരിക്കുന്നു ഇത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡാറ്റയാണ് എനിക്ക് ഈ ഡാറ്റയുടെ വലിയൊരു തുക ലഭിച്ചുകഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഫോം ഞാൻ എങ്ങനെ കണ്ടെത്തും ഒരിക്കൽ ഞാൻ ഒരു ഫംഗ്ഷണൽ ഫോം തിരഞ്ഞെടുത്താൽ ഫങ്ഷണൽ ഫോമിലുള്ള പാരാമീറ്ററുകൾ എങ്ങനെ തിരിച്ചറിയാം ഒരു ലളിതമായ ഉദാഹരണം ഇത് ഒരു ലീനിയർ ഫംഗ്ഷണൽ ഫോമാണെങ്കിൽ ഞാൻ y a₀ x b0 എന്ന് പറയാം ഈ സാഹചര്യത്തിൽ ഫങ്ഷണൽ ഫോം ലീനിയർ ആണ് പരാമീറ്ററുകൾ a₀ b₀ ഇത് ഒരു ക്വാഡ്രാറ്റിക് ഫങ്ഷണൽ രൂപമാണെന്ന് നിങ്ങൾ അനുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് a₀ x2 a₁ x a₂ ചെയ്യാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഫങ്ഷണൽ ഫോം ക്വാഡ്രാറ്റിക് ആണ് ഇപ്പോൾ a₀ a₁ a₂ എന്നീ 3 പരാമീറ്ററുകളും ഉണ്ട് അതിനാൽ നിങ്ങൾ ഈ ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഫംഗ്ഷനും പാരാമീറ്ററുകളും കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളങ്ങളിൽ ഈ പോയിന്റുകൾ അകലെയുള്ള ഒരു രേഖയോ ഹൈപ്പർ പ്ലെയിനോ ഉള്ള ലീനിയർ കേസിൽ നമുക്ക് പറയാം ഇതിൽ നിന്ന് കഴിയുന്നത്ര ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ കേസിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോയിന്റുകൾക്ക് ചുറ്റും ക്ലസ്റ്ററായിരിക്കുന്ന ഒരു രേഖയോ ഹൈപ്പർ പ്ലെയിനോ കണ്ടെത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊരു ലീനിയർ പ്രോബ്ളമാണ് ഇതാണ് നമ്മൾ ഈ കോഴ്സിൽ ലീനിയർ റിഗ്രഷൻ ആയി കാണാൻ പോകുന്നത് ഇപ്പോൾ മുകളിലെ ചിത്രത്തിന് സമാനമായ പ്രോബ്ളത്തിന്റെ അതേ നോൺ ലീനിയർ പതിപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരു നോൺ ലീനിയർ പ്രതലമോ ഈ പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ഒരു വക്രമോ ഉണ്ടായിരിക്കണം ഈ പോയിന്റുകൾ ആ വക്രത്തിന് ചുറ്റും ക്ലസ്റ്റർ ചെയ്തിരിക്കുന്നു അതിനാൽ ചുരുക്കത്തിൽ ഡാറ്റാ സയൻസസ് ഉപയോഗിച്ച് ഒരു എഞ്ചിനീയറിംഗ് വീക്ഷണകോണിൽ നിന്ന് നമ്മൾ പ്രധാനമായും പരിഹരിക്കുന്ന രണ്ട് തരം പ്രോബ്ളങ്ങൾ മാത്രമേ ഉള്ളൂ ഇവ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളങ്ങളും ഫങ്ക്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ളങ്ങളുമാണ് അതിനാൽ നമ്മൾ ശരിക്കും പരിഹരിക്കുന്നത് രണ്ട് തരം പ്രോബ്ളങ്ങൾ മാത്രമാണെങ്കിൽ അത്തരം പ്രോബ്ളങ്ങൾ പരിഹരിക്കുന്നതിന് ഇത്രയധികം ടെക്നിക്കുകൾ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് ഒരാൾ ചോദിച്ചേക്കാം ആരെങ്കിലും ഡാറ്റാ സയൻസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സാധാരണ ചോദ്യം ഒരു പ്രത്യേക ടെക്നിക്ക് മറ്റൊരു ടെക്നിക്കിനെക്കാളും മികച്ചതാണോ എന്നതാണ് ഒരു ടെക്നിക്കിന്റെ വക്താവ് പറയും ഇത് ഏറ്റവും വലിയ ടെക്നിക്കണെന്ന് മറ്റൊരു ടെക്നിക്കിന്റെ വക്താവ് പറയും ഇത് ഒരു മികച്ച ടെക്നിക്കണെന്ന് ഈ സംവാദം അങ്ങനെ തുടരുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയധികം ടെക്നിക്കുകൾ ഉള്ളത് എന്നതിന് അൽപ്പം വ്യത്യസ്തമായ ഒരു വീക്ഷണം ഞാൻ നൽകാൻ പോകുന്നു ഏത് ടെക്നിക്കാണ് മികച്ചത് എന്ന ഈ ചോദ്യം ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാം അതിനാൽ ഇത് ചെയ്യുന്നതിന് നമുക്ക് ഒരു ചിന്താ പരീക്ഷണം നടത്താം സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന മേശപ്പുറത്ത് നിരവധി ഒബ്ജക്റ്റുകൾ ഉണ്ട് പിന്നെ ടേബിളിൽ എത്ര സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയും ഒരു ക്യാമറയുണ്ട് ഒരു കപ്പുണ്ട് രണ്ട് മൊബൈൽ ഫോണുകളുണ്ട് ഒരു വാച്ച് ഉണ്ട് ഒരു പേന കുപ്പി തുടങ്ങിയവയുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി നമുക്ക് കാണേണ്ടതെന്തും എണ്ണുകയോ കാണുകയോ ചെയ്യാം തുടർന്ന് എണ്ണുക തുടർന്ന് പട്ടികയിലെ വസ്തുക്കളോ സാധനങ്ങളോ ഇവയാണെന്ന് പറയാം ഒരു അർത്ഥത്തിൽ നമുക്ക് കാണാനാകുന്നതെല്ലാം കണക്കാക്കാം ഈ സമയത്ത് നിങ്ങൾ പറയും മേശപ്പുറത്തുള്ളതെല്ലാം ഇതാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചു ശരിക്കും മേശപ്പുറത്ത് എല്ലാം ഉണ്ട് എന്നതാണ് ഇത് വളരെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് പക്ഷേ ഡാറ്റാ സയൻസിനായി ഇത്രയധികം ടെക്നിക്കുകൾ ഉള്ളത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമ്മൾ തിരികെ പോകുമ്പോൾ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന ആശയം ഇത് വ്യക്തമാക്കുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും മേശപ്പുറത്ത് എല്ലാം ഉണ്ട് എന്നിട്ട് ഞാൻ നിങ്ങളോട് ഈ ചോദ്യം തുടർന്നും ഞാൻ നിങ്ങളോട് ചോദിക്കും മേശപ്പുറത്ത് എല്ലാം ഉണ്ടോ എന്നിട്ട് ഞാൻ നിങ്ങളോട് നമുക്ക് ശരിക്കും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ എന്താണ് എന്ന ഈ ചോദ്യം ചോദിക്കും മേശപ്പുറത്ത്ന മുക്ക് നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാകാത്ത ദശലക്ഷക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ഉണ്ടായിരിക്കാം മേശപ്പുറത്തുള്ളതെല്ലാം എണ്ണാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നവ മാത്രമേ നിങ്ങൾക്ക് എണ്ണാൻ കഴിയൂ അല്ലാത്തവ എണ്ണാൻ കഴിയില്ല മേശപ്പുറത്ത് നാല് വ്യത്യസ്ത തരം സൂക്ഷ്മാണുക്കൾ ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം നിങ്ങൾക്കത് കാണാൻ കഴിയില്ല നിങ്ങൾ ചെയ്യുന്നത് വീണ്ടും ചിന്താ പരീക്ഷണം നടത്തുക എന്നതാണ് ആരെങ്കിലും എന്തെങ്കിലും രാസവസ്തുക്കൾ കൊണ്ടുവന്നുവെന്ന് പറയാം അത് നിങ്ങൾ തളിച്ചാൽ നിങ്ങൾക്ക് ഈ സൂക്ഷ്മാണുക്കളെ കാണാൻ കഴിയും അതിനാൽ നമുക്ക് 4 സൂക്ഷ്മാണുക്കൾ ഉണ്ടെന്ന് പറയട്ടെ നാല് രാസവസ്തുക്കൾ ഉണ്ട് ഇപ്പോൾ ഇവിടെ അനുമാനം ആരെങ്കിലും ഇത്തരമൊരു രാസവസ്തുവുമായി വന്നപ്പോൾ അവർ അത് പരീക്ഷിച്ചു അത് ആ പ്രത്യേക സൂക്ഷ്മാണുക്കൾക്ക് പ്രവർത്തിക്കുന്നുവെന്ന് അവർ വളരെ സൈദ്ധാന്തികമായും ആവർത്തിച്ച് കാണിച്ചും കാണിച്ചു അതിനാൽ ഈ രാസവസ്തു ഈ സൂക്ഷ്മാണുക്കൾക്ക് നല്ലതാണോ എന്ന് നമുക്ക് തിരിച്ചുപോയി ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം അത് ന്യായമായും നന്നായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഈ 4 സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുചെയ്യും മേശപ്പുറത്ത് എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ ഒരു അനുമാനം നടത്തണം അതിനാൽ മേശപ്പുറത്തുള്ളത് സൂക്ഷ്മാണുക്കൾ ഒന്നാണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നുവെന്ന് നമുക്ക് പറയാം നിങ്ങൾ ഫ്ലൂറസെന്റ് കെമിക്കൽ ഒന്ന് എടുത്ത് അത് തളിക്കുക ഇപ്പോൾ നിങ്ങൾ ഫ്ലൂറസെൻസ് കാണുകയാണെങ്കിൽ അതെ എന്റെ അനുമാനം ശരിയാണ് ഇത് മേശപ്പുറത്തുള്ള സൂക്ഷ്മാണുവാണ് എന്ന നിഗമനത്തിലെത്തും ഇപ്പോൾ രസകരമായ കാര്യം എന്തെന്നാൽ ഇത് നമ്മൾക്ക് അനുയോജ്യമല്ലെങ്കിൽ രാസവസ്തു മോശമാണ് എന്നല്ല നിഗമനം കാരണം ഇത് ഈ പ്രത്യേക കേസിൽ പ്രവർത്തിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതിനാൽ നിങ്ങൾ നടത്തിയ അനുമാനം ശരിയല്ലെന്ന് നിങ്ങൾ അനുമാനിക്കും അതിനാൽ മേശപ്പുറത്ത് സൂക്ഷ്മാണുക്കൾ 2 ഉണ്ടെന്ന് നിങ്ങൾ അടുത്ത അനുമാനത്തിലേക്ക് മടങ്ങേണ്ടതുണ്ട് തുടർന്ന് നിങ്ങൾ ഫ്ലൂറസെൻസ് കെമിക്കൽ 2 നോക്കുക നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ കെമിക്കൽ 2 ഉം 4 ഉം ഉപയോഗിക്കുമ്പോൾ അത് ഒന്ന് ഫ്ലൂറസുചെയ്തു 3 ഫ്ലൂറസ് ചെയ്തില്ല തുടർന്ന് ആ എക്സസൈസ്ന്റെ അവസാനം നിങ്ങൾക്ക് തിരികെ പോകാം തുടർന്ന് മേശപ്പുറത്തുള്ള സാധനങ്ങൾ ക്യാമറയും സെൽ ഫോണും മറ്റുള്ളവയും സൂക്ഷ്മാണുക്കൾ 2 ഉം 4 ഉം ആണെന്ന് പറയാം ഈ അനുമാന മൂല്യനിർണ്ണയ ചക്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ദൃശ്യപരമായി കാണാൻ കഴിയാത്തത് എങ്ങനെ കാണാൻ കഴിഞ്ഞുവെന്ന് ഇപ്പോൾ ശ്രദ്ധിക്കുക അതിനാൽ ഇത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ് വരുന്ന സ്ലൈഡിൽ ഞാൻ ഇതിനെ ടെക്നിക്കുകളിലേക്കും ഡാറ്റാ സയൻസിലേക്കും ബന്ധിപ്പിക്കാൻ പോകുന്നു ഉദാഹരണമായി ലോകം 2 D ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതെല്ലാം വെറും രണ്ട് ആട്രിബ്യൂട്ടുകൾ ഉപയോഗിച്ച് ചെയ്യാം രണ്ട് ആട്രിബ്യൂട്ടുകൾ നോക്കാം അത് ഒരു ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളമായാലും ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ളമായാലും എനിക്ക് അത് ദൃശ്യവൽക്കരിക്കാൻ കഴിയും ഞാൻ ആഗ്രഹിക്കുന്നതെന്തും വരയ്ക്കാം എന്നിട്ട് പ്രോബ്ളം പരിഹരിക്കുക അതിനാൽ ഉദാഹരണത്തിന് ഇത് ഒരു ഡിസ്ട്രിബൂഷൻ ആണെന്ന് ഇവിടെ എനിക്ക് പറയാൻ കഴിയും രണ്ട് വേരിയബിളുകളിലും മറ്റും ഇത് ഒരു നോർമൽ ഡിസ്ട്രിബൂഷൻ ആണെന്ന് തോന്നുന്നു ഇത് ഒരു ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ളമാണെങ്കിൽ ഒരൊറ്റ വരി ഈ പ്രോബ്ലം പരിഹരിക്കില്ലെന്ന് നിങ്ങൾക്ക് ശരിക്കും പറയാൻ കഴിയും അതിനാൽ എനിക്ക് ഒരു നോൺ ലീനിയർ ഫംഗ്ഷനും മറ്റും ഉപയോഗിക്കാം ലോകം 2 ഡി ആയിരുന്നെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് ഇപ്പോഴും പ്രധാനമാണ് കാരണം എനിക്ക് വേരിയബിളിറ്റിയെല്ലാം വിശദീകരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും നമുക്ക് രണ്ടിൽ കൂടുതൽ വേരിയബിളുകളോ രണ്ടിൽ കൂടുതൽ ആട്രിബ്യൂട്ടുകളോ ഉള്ള സാഹചര്യം പോലെ അത് വളരെ നിർണായകമല്ല മാത്രമല്ല ഒരാൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ പ്രോബ്ളങ്ങൾക്കും ഈ ഡാറ്റാ പ്രളയമാണ് എന്നതാണ് നിലവിലെ സ്ഥിതി ഒരാൾക്ക് യഥാർത്ഥത്തിൽ അളക്കാനും നിരീക്ഷിക്കാനും കഴിയുന്ന ടൺ കണക്കിന് ആട്രിബ്യൂട്ടുകളുണ്ട് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന പ്രോബ്ളത്തിന് ഈ ആട്രിബ്യൂട്ടുകളിൽ എത്രയെണ്ണം യഥാർത്ഥത്തിൽ സംഭാവന ചെയ്യാൻ പോകുന്നുവെന്നോ ഈ ആട്രിബ്യൂട്ടുകളിൽ എത്രയെണ്ണം ശരിക്കും പ്രധാനപ്പെട്ടതാണെന്നോ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ വലിയ ഡാറ്റയുമായി 2 ഡയമെൻഷനിൽ നിന്ന് മൾട്ടിപ്പിൾ ഡൈമൻഷനുകളിലേക്കാണ് പോകുന്നത് പിന്നെ ചോദ്യം മൾട്ടിപ്പിൾ ഡൈമൻഷനിൽ ഡാറ്റയുടെ ഓർഗനൈസേഷൻ എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് എനിക്ക് 3 D ക്കപ്പുറം കാണാൻ കഴിയാത്ത ഒന്നിലധികം ഡൈമൻഷനുകൾ കാണാൻ കഴിയില്ല അതിനാൽ ഞാൻ ഇത് എങ്ങനെ ചെയ്യും എന്നത് നമ്മൾ ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന ഒരു ചോദ്യമാണ് ഉയർന്ന അളവിലുള്ള ഡാറ്റ പരിശോധിക്കുന്നതിനുള്ള മൈക്രോസ്കോപ്പായി ഡാറ്റ അനലിറ്റിക് ടൂളുകളെ ഞാൻ കരുതുന്നു നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണാനോ ദൃശ്യവൽക്കരിക്കാനോ കഴിയാത്ത 2 ലധികം അളവിലുള്ള ഡാറ്റയും നമ്മൾ ഇത് ചെയ്യുന്ന രീതിയും ഇനിപ്പറയുന്നതാണ് നമ്മൾക്ക് ഡാറ്റയുണ്ട് നമ്മൾക്ക് അത് കാണാൻ കഴിയില്ല കാരണം ചില സന്ദർഭങ്ങളിൽ 1000 10000 ആട്രിബ്യൂട്ടുകൾ ഉള്ളതിനാൽ നമ്മൾക്ക് അത് പ്ലോട്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന സൂക്ഷ്മാണുക്കളുടെ ഉദാഹരണം പോലെയാണ് ഡാറ്റയെക്കുറിച്ച് നിങ്ങൾ ചില അനുമാനങ്ങൾ നടത്തേണ്ടതുണ്ട് സമഗ്രമായ അനുമാനങ്ങൾ കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ് എന്നാൽ പൊതുവായി ഉണ്ടാക്കിയിട്ടുള്ള ചില അനുമാനങ്ങൾ ഞാൻ വിശദീകരിക്കാം ഡാറ്റ യഥാർത്ഥത്തിൽ റാൻഡം ആണെന്നോ അല്ലെങ്കിൽ റാൻഡം പ്രോസസ്സിൽ നിന്ന് ഡാറ്റ ജനറേറ്റ് ചെയ്തതാണെന്നോ നിങ്ങൾക്ക് അനുമാനം ഉണ്ടാക്കാം കൂടാതെ ഇത് ഗാസിയൻ ഡിസ്ട്രിബ്യൂഷനാണെന്നും മറ്റും നിങ്ങൾക്ക് ഡിസ്ട്രിബൂഷൻ അനുമാനങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ക്ലാസ്സിഫിക്കേഷൻ പ്രോബ്ളം പരിഹരിക്കാൻ എനിക്ക് ഒരു ലീനിയർ ക്ലാസിഫയർ ഉപയോഗിക്കാമെന്ന് ഞാൻ കരുതുന്നത് പോലെ ഡാറ്റ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അനുമാനങ്ങൾ ഉണ്ടാക്കാം ഈ സാഹചര്യത്തിൽ പ്രോബ്ളം അല്ലെങ്കിൽ ഡാറ്റ ഘടനാപരമായ രീതിയിലാണ് നമ്മൾ അടിസ്ഥാന അനുമാനം ഉണ്ടാക്കുന്നത് രേഖീയമായി വേർതിരിക്കാവുന്നതാണ് നിങ്ങൾക്ക് അനുമാനങ്ങളുടെ സംയോജനവും മറ്റും ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധി അനുമാനങ്ങളുണ്ട് അതിനാൽ നിങ്ങൾ ഈ അനുമാനങ്ങൾ ഉണ്ടാക്കുന്ന മൾട്ടി ഡൈമൻഷണൽ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കുന്നു തുടർന്ന് നിങ്ങൾ ചെയ്യുന്നത് ഇനിപ്പറയുന്നവയാണ് അനുമാനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഒരു ടെക്നിക്ക് തിരഞ്ഞെടുക്കുന്നു ഈ അനുമാനങ്ങൾ ഉണ്ടാക്കിയ പ്രോബ്ളങ്ങൾ പരിഹരിക്കാൻ ഈ ടെക്നിക്ക് തെളിയിക്കപ്പെട്ടിരിക്കണം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രോബ്ളം രേഖീയമായി തരംതിരിക്കാവുന്നതാണെന്ന് നിങ്ങൾ അനുമാനിക്കുകയാണെങ്കിൽ രേഖീയമായി വേർതിരിക്കാവുന്ന പ്രോബ്ളങ്ങൾക്ക് സൈദ്ധാന്തികമായി വളരെ നന്നായി പ്രവർത്തിക്കുമെന്ന് കാണിച്ചിരിക്കുന്ന വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ടെക്നിക്ക് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നു ഇത് ഒരു പ്രത്യേക തരം ജീവികൾക്ക് ഫ്ലൂറസ് ഉണ്ടാക്കുന്നതായി കാണിക്കുന്ന രാസവസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാണ് അതിനാൽ നിങ്ങൾ ടെക്നിക് തിരഞ്ഞെടുക്കുകയും തുടർന്ന് ഈ ടെക്നിക്ക് വിന്യസിക്കുകയും ചെയ്യുന്നു ഉത്തരം അർത്ഥമുള്ളതാണെങ്കിൽ ഒരു ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് ഗണിതശാസ്ത്രപരമായി അർത്ഥമാക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താണെന്ന് നമ്മൾ കാണും തുടർന്ന് നിങ്ങൾ ഉണ്ടാക്കിയ ഡാറ്റ അനുമാനങ്ങൾക്ക് അനുസൃതമായി ക്രമീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന പദങ്ങൾ നോക്കേണ്ടത് പ്രധാനമാണ് അത് സംഘടിപ്പിക്കപ്പെടാൻ സാധ്യത ആണ് അനുമാനങ്ങൾ പ്രധാനമാണ് സാധ്യത അർത്ഥമാക്കുന്നത് നമ്മൾ ചില മെട്രിക് ചെയ്യേണ്ടിവരും വ്യത്യസ്ത ആളുകൾ വ്യത്യസ്തമായി ഉപയോഗിക്കും മെട്രിക്കുകളും ആ മെട്രിക്കിന്റെ വിവിധ തലത്തിലുള്ള സംതൃപ്തിയും അവരുടെ പക്കലുള്ളത് ശരിയും തെറ്റും ആണെന്ന് ബോധ്യപ്പെടണം അതിനാൽ അവിടെയാണ് ആത്മനിഷ്ഠത വരുന്നത് എന്നാൽ ഉത്തരങ്ങൾ അർത്ഥവത്താണെങ്കിൽ അനുമാനങ്ങൾക്ക് അനുസൃതമായി ഡാറ്റ സംഘടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയും ഉത്തരങ്ങൾക്ക് അർത്ഥമില്ലെങ്കിൽ സാധാരണയായി ടെക്നിക്കിനെ കുറ്റപ്പെടുത്തുന്ന പ്രവണതയാണ് അത് ഒരു യഥാർത്ഥ ടെക്നിക്കല്ലത്തതാണ് പ്രശ്നം എന്ന കുറ്റപ്പെടുത്തൽ ഈ ഡാറ്റ മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ കാണാൻ കഴിയാത്തതിനാൽ നമ്മൾ ഉണ്ടാക്കിയ അനുമാനങ്ങളാണ് പ്രോബ്ളം അതിനാൽ നിങ്ങൾ ഒരു ഡാറ്റാ സയന്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അനുമാനങ്ങൾ പരിഷ്ക്കരിക്കുകയും ഈ അനുമാനങ്ങൾ ശരിയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ടെക്നിക്ക് വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചില അനുമാനങ്ങൾ ഉപയോഗിക്കുകയും അനുമാനങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും ആ അനുമാനങ്ങൾ ഈ പ്രോബ്ളത്തിന് സാധുതയുള്ള ഒന്നായിരിക്കാൻ സാധ്യതയില്ലെന്നും മുൻ ആവർത്തനം പ്രതീക്ഷിക്കുന്നു ആ ശ്രമത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടെങ്കിലും അനുമാനം പരിഷ്കരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും അതിൽ നിന്ന് ലഭിച്ചു അതിനാൽ മുമ്പത്തെ പരാജയ ശ്രമങ്ങളിൽ നിന്ന് കൂടുതൽ അറിവോടെ ഈ അനുമാന പരിഷ്കരണ പ്രക്രിയ നടത്താം ഉത്തരങ്ങൾ തൃപ്തികരമാകുന്നതുവരെ നിങ്ങൾ ഈ പ്രക്രിയ തുടരുകയും ഈ പ്രക്രിയയിൽ നിങ്ങൾ അദൃശ്യമായത് എങ്ങനെ കാണുന്നുവെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങൾക്ക് n ഡയമെൻഷനുകളിൽ ഡാറ്റ കാണാൻ കഴിയും ഉദാഹരണത്തിന് നിങ്ങൾക്ക് നൂറ് വേരിയബിളുകൾ വ്യക്തമായി കാണാനാകില്ല തുടർന്ന് അവ രേഖീയമായി വേർതിരിക്കാനാകുമോ ഇല്ലയോ എന്ന് നോക്കുക എന്നാൽ നിങ്ങൾ ഒരു ലീനിയർ ക്ലാസിഫയർ ഉപയോഗിക്കുകയും അത് വളരെ നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു ഹൈപ്പർ പ്ലെയിൻ ഈ ഡാറ്റയെ രണ്ട് ഗ്രൂപ്പുകളായി വേർതിരിക്കുന്ന വിധത്തിൽ ഡാറ്റ ഓർഗനൈസുചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ടേബിൾ കെയ്സിൽ നമ്മൾ നടത്തിയ ചിന്താ പരീക്ഷണം പോലെ നിങ്ങൾ അദൃശ്യമായത് കാണാൻ തുടങ്ങി ഇപ്പോൾ സാധ്യതയുള്ളതും യുക്തിസഹവുമായ ഈ ചോദ്യം വളരെ പ്രധാനമാണ് എനിക്ക് ലഭിച്ച ഫലങ്ങൾ മതിയായതാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കും ഈ ഡാറ്റ അനലിറ്റിക് ടെക്നിക്കുകളിൽ പലതിലും ടെസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ഡാറ്റ വളരെ പ്രധാനമാണ് നമ്മൾ വ്യത്യസ്ത ടെക്നിക്കുകൾ പഠിപ്പിക്കുമ്പോൾ ഇത് എങ്ങനെ പ്രധാനമാണെന്ന് നിങ്ങൾ കാണുകയും ഇത് കൂടുതൽ വിശദമായി വിശദീകരിക്കുകയും ചെയ്യും ഇപ്പോൾ ആത്യന്തികമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനിപ്പറയുന്നവയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം രീതികൾ ഉള്ളത് എന്നതിന് നമ്മൾക്ക് ഉത്തരം ഉണ്ട് നിങ്ങൾക്ക് പല തരത്തിലുള്ള അനുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഈ അനുമാനങ്ങൾ ഓരോന്നിനും അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ടെക്നിക്കുകൾ കൊണ്ടുവരാൻ കഴിയും ആ അനുമാനങ്ങൾ ശരിയാണെങ്കിൽ അല്ലെങ്കിൽ അൽഗോരിതം ക്രമീകരിച്ചതായി കരുതുന്ന വിധത്തിൽ ഡാറ്റ ഓർഗനൈസുചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നന്നായി പ്രവർത്തിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന നിരവധി അനുമാനങ്ങൾ ഉള്ളതിനാൽ ടെക്നിക്കിൽ ഉപയോഗിക്കുന്ന അനുമാനങ്ങൾക്കനുസരിച്ച് ഡാറ്റ ക്രമീകരിച്ചിരിക്കുന്ന പ്രോബ്ളങ്ങൾ പരിഹരിക്കുന്നതിനായി ട്യൂൺ ചെയ്യപ്പെടുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന നിരവധി ടെക്നിക്ക്കളുണ്ട് നിങ്ങൾക്ക് വളരെയധികം ടെക്നിക്കുകൾ ഉള്ളതിന്റെ കാരണം ഇതാണ് ചില അർത്ഥത്തിൽ നിങ്ങൾ ഈ ടെക്നിക്ക്തകളെല്ലാം നോക്കുമ്പോൾ ഈ ടെക്നിക്ക്കളെ മറ്റൊന്നിനേക്കാൾ മികച്ചതാണ് എന്ന് അന്ധമായി താരതമ്യം ചെയ്യുന്നത് അത്ര പ്രധാനമോ രസകരമോ അല്ല എന്നാൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഡാറ്റാ സയൻസ് വീക്ഷണകോണിൽ നിന്ന് ഓരോ ടെക്നിക്കിനെയും അത് പരിഹരിക്കപ്പെടുന്ന പ്രോബ്ളത്തെക്കുറിച്ച് ഉണ്ടാക്കുന്ന അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുന്നത് വളരെ പ്രധാനമാണ് കൂടാതെ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാങ്കേതികത ഉപയോഗിക്കുന്ന അനുമാനങ്ങളുടെ ഒരു മെന്റൽ മാപ്പ് നിങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടെക്നിക് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു കൂട്ടം ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല സാഹചര്യത്തിലാണ് നിങ്ങൾ ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് ഈ ലെക്ച്ചറിൽ ഡാറ്റാ സയൻസിനെക്കുറിച്ചുള്ള ആദ്യ ആമുഖ ലെക്ച്ചറിൽ നമ്മൾ പരിഹരിച്ച പ്രോബ്ളങ്ങളുടെ തരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉടനടി അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചുരുക്കത്തിൽ ഡാറ്റാ സയൻസിൽ നിങ്ങൾ പരിഹരിക്കുന്ന മിക്ക പ്രോബ്ളങ്ങളെയും ക്ലാസിഫിക്കേഷൻ പ്രോബ്ളങ്ങൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ അപ്പ്രോക്സിമേഷൻ പ്രോബ്ളങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം അതായത് ഈ ലെക്ച്ചറിൽ നിന്നുള്ള ഒരു സന്ദേശം ഈ ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങൾ പരിഹരിക്കുന്നതിന് നിരവധി ടെക്നിക്കുകൾ ഉണ്ട് എന്നതാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ടെക്നിക്കുകൾ ഉള്ളതെന്ന് അറിയാൻ നമ്മൾ ആഗ്രഹിച്ചു ഈ ടെക്നിക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് അൽപ്പം വ്യത്യസ്തമായ വീക്ഷണം നൽകി മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ ഡാറ്റ കാണാനും ദൃശ്യവൽക്കരിക്കാനും സ്വഭാവീകരിക്കാനും വിശദീകരിക്കാനും അനുവദിക്കുന്നു അതിനാൽ നിങ്ങൾ ഡാറ്റ മൾട്ടിപ്പിൾ ഡയമെൻഷനിൽ കാണാൻ തുടങ്ങുന്നു അല്ലാതെ അത് സാധ്യമല്ല അടുത്ത ലെക്ച്ചറിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ആശയങ്ങളിൽ ചിലത് ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ആദ്യപടിയായി പല ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങളിലും ഉപയോഗിക്കുന്ന ഡാറ്റ ഇംപ്യൂട്ടേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചട്ടക്കൂട് ഞാൻ ചിത്രീകരിക്കും ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് ഞാൻ വിവരിക്കും ആ ചട്ടക്കൂട് എന്താണെന്നും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും വിശദീകരിക്കാൻ ഈ ഡാറ്റ ഇംപ്യൂട്ടേഷൻ ഒരു ഉദാഹരണമായി ഉപയോഗിക്കും ആ പ്രക്രിയയുടെ ഭാഗമായി നിങ്ങൾക്ക് താൽപ്പര്യമുള്ള പ്രോബ്ലം പരിഹരിക്കുന്നതിനുള്ള മികച്ച ടെക്നിക്ക് തിരഞ്ഞെടുക്കുന്നതിന് ചട്ടക്കൂടിനുള്ളിൽ ഈ അനുമാന മൂല്യനിർണ്ണയ സൈക്കിൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും നമ്മൾ കാണും ഡാറ്റാ സയൻസ് പ്രോബ്ളങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂടിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള അടുത്ത ലെക്ച്ചറിൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണും